സൂചകപദങ്ങൾ ചെസ്സ് കളിക്കാർ പ്രതീകാത്മകത ലഖ്നൌ ഹലോ പ്രേംചന്ദിന്റെ 'ദ ചെസ് പ്ലെയേഴ്സ്' എന്ന ഈ പ്രഭാഷണത്തിലേക്ക് സ്വാഗതം ഈ പ്രഭാഷണം കഴിഞ്ഞ സെഷന്റെ തുടർച്ചയാണ് അവിടെ ഞാൻ ചെറുകഥ വിഭാഗത്തെക്കുറിച്ചും ഒപ്പം ഒരു സൈക്കോളജിക്കൽ ക്ലൈമാക്സിനെ കുറിച്ചും പ്രേംചന്ദ് ഊന്നൽ നൽകുന്നതിനെ പറ്റിയും ചർച്ച ചെയ്തു അത് ഒരു പ്രമേയത്തെയോ അല്ലെങ്കിൽ ഒരു അഗാധമായ ആശയത്തെയോ അല്ലെങ്കിൽ ഒരു സംഭവത്തെക്കുറിച്ചുള്ള ദാർശനിക വീക്ഷണത്തിന് ഊന്നൽ നൽകുന്നു ഓക്കേ ഇപ്പോൾ നിങ്ങൾ ഓർക്കുകയാണെങ്കിൽ അവിടെ അവരുടെ ചെസ്സ് കളിയുടെ കാര്യത്തിൽ മിർസയുടെ വീട്ടിൽ വലിയ പ്രശ്നമുണ്ട് മിർസയുടെ വീട്ടിൽ ഈ കളിയോട് വെറുപ്പാണ് അവന്റെ ഭാര്യക്ക് കടുത്ത അതൃപ്തിയുണ്ട് കൂടാതെ ബീഗം ഈ ഗെയിം കളിക്കുന്നതിന് ഒരു അവസാനമുണ്ടാക്കുന്നു ഇപ്പോൾ ഗെയിം മിറിന്റെ വീട്ടിലേക്ക് മാറ്റുന്നു ബീഗം ഗെയിമിനെ വെറുക്കുന്നു എന്നതല്ല പ്രശ്നം മിർസയുടെ വീട്ടിലെ ഗൃഹാതുരത്വത്തെ തടസ്സപ്പെടുത്തുന്ന അഭിനിവേശമാണ് ബീഗത്തെ ഏതാണ്ട് ഉന്മത്തമായ രീതിയിൽ പ്രതികരിക്കാൻ പ്രേരിപ്പിക്കുന്നത് അവൾ ചെസ്സ് ബോർഡ് എറിയുകയും പീസുകൾ വലിച്ചെറിയുകയും അതോടൊപ്പം ഒരു കള്ളനെപ്പോലെ ഓടി മറയുന്ന അയാളുടെ സുഹൃത്ത് മിറിനെതിരെ വാതിൽ അടയ്ക്കുകയും ചെയ്യുന്നു കളി മിറിന്റെ വീട്ടിലേക്ക് മാറ്റുമ്പോൾ മിർ റോഷൻ അലിയുടെ വീട്ടിൽ അയാളുടെ ഭാര്യ അയാളുടെ ബീഗവും അസന്തുഷ്ടയാണ് അതിനാൽ അവൾക്കും തുല്യ അതൃപ്തിയുണ്ട് അത് മറ്റൊരു പ്രത്യേക കാരണത്താലാണ് നമ്മൾ കുറച്ച് സമയത്തിനകം ആ കാരണത്തിലേക്ക് മടങ്ങി വരാം അവർ മിറിന്റെ വീട്ടിലെ ഗസ്റ്റ്ഹൌസിൽ ചെസ്സ് ബോർഡ് വിരിച്ചപ്പോൾ ഇതായിരുന്നു സ്ഥിതി ഞാൻ ആ ഉദ്ധരണി വായിക്കട്ടെ ദേവാങ്കാനയിൽ ചെസ്സ് ബോർഡ് വിരിച്ചപ്പോൾ മീർ സാഹിബ് പുറത്തേക്ക് പോകുന്നത് നിർത്തി അപ്പോൾ ബീഗം ഉത്കണ്ഠാകുലയായി അവളുടെ സ്വാതന്ത്ര്യം ഹനിക്കപ്പെട്ടു പുറം കാഴ്ചകൾ കാണാൻ അവൾക്ക് ഒരു അവസരവും ഉണ്ടായിരുന്നില്ല അതിനാൽ എഡ്ജി എന്ന വാക്ക് ബീഗത്തിന്റെ പശ്ചാത്തലത്തിൽ പ്രത്യേകിച്ചും രസകരമാണ് അവളുടെ സ്വാതന്ത്ര്യം തടയപ്പെട്ടു ഹനിക്കപ്പെട്ടു അവസാനിപ്പിക്കപ്പെട്ടു എന്ന് ആഖ്യാതാവ് പറയുന്നു വീട്ടിൽ ഭർത്താവിന്റെ തുടർച്ചയായ സാന്നിധ്യം കാരണം പുറംലോകത്തെ ഒരു നോക്ക് കാണാൻ പോലും അവൾക്ക് കഴിഞ്ഞില്ല മിറിന്റെ വീട്ടിൽ ചെസ്സ് കളിക്കുന്നത് മുഖാന്തരം അയാളുടെ ഭാര്യക്ക് ചില പ്രയാസങ്ങൾ ഉണ്ടാകുന്നു മിറിന്റെ വീട്ടിൽ കളിക്കുന്ന ഈ ചെസ്സ് ഗെയിമിന് ആഴത്തിലുള്ള മറ്റ് പ്രത്യാഘാതങ്ങൾ ഉണ്ട് കാരണം ഭാര്യ ഭർത്താവിനെ മറ്റ് കാരണങ്ങളാൽ അകറ്റാൻ ആഗ്രഹിക്കുന്നു കുറച്ച് മിനിറ്റിനുള്ളിൽ നമ്മൾ അതിലേക്ക് വരും അതിനാൽ ഞാൻ പറഞ്ഞതുപോലെ എഡ്ജി എന്ന വാക്ക് വളരെ രസകരമാണ് കാരണം ബീഗം ഉത്കണ്ഠാകുലയാകുന്നു മിർസയുടെ ഭാര്യയെ നിങ്ങൾ ഓർമ്മിക്കുകയാണെങ്കിൽ അവൾ മറ്റൊരു കാരണത്താൽ ഉത്കണ്ഠാകുലയാകുന്നു അവൾ ഉത്കണ്ഠാകുലയും പ്രകോപിതയുമാണ് കാരണം ഭർത്താവ് ഒരിക്കലും വീട്ടിൽ ഇല്ല നേരെമറിച്ച് അയാൾ വീട്ടിനുള്ളിൽ ആയിരിക്കുമ്പോൾ മിറിന്റെ ബീഗം ഉത്കണ്ഠാകുലയാകുന്നു അതിനാൽ നമുക്ക് രണ്ട് വിപരീതങ്ങൾ ഉണ്ട് ഇവിടെ രണ്ട് വിപരീതസ്വഭാവമുള്ള വ്യക്തികളെ ഈ നിർദ്ദിഷ്ട കഥയിൽ ആസൂത്രണം ചെയ്യുകയോ അല്ലെങ്കിൽ ചിത്രീകരിച്ചിരിക്കുകയോ ചെയ്യുന്നു നമുക്ക് ഇവിടെ രണ്ട് വീട്ടുകാർ ഉണ്ട് മിർസയുടെ വീട്ടിൽ ഒരു ഗൃഹാതുരതയുണ്ട് അവിടെ ഭാര്യ ഭർത്താവ് തന്നോടൊപ്പം വീട്ടിലുണ്ടായിരിക്കണമെന്ന് ആഗ്രഹിക്കുന്നു എന്നാൽ മറ്റൊരിടത്ത് ഭർത്താവിനെ വീട്ടിൽ നിന്ന് അകറ്റാൻ ഭാര്യ ആഗ്രഹിക്കുന്നു അതിനാൽ ഞാൻ പറഞ്ഞതുപോലെ മിറിന്റെ ബീഗത്തിന്റെ സ്വാതന്ത്ര്യം പരിമിതപ്പെട്ടിരിക്കുന്നു ഭർത്താവിന്റെ പ്രവർത്തനങ്ങൾ ഭാര്യയെ തടസ്സപ്പെടുത്തുന്നു ഒപ്പം ചലനാത്മകതയെ പ്രതികൂലമായി ബാധിക്കുന്നു അതോടൊപ്പം അവിടെ ഞാൻ പറഞ്ഞതുപോലെ മിറിന്റെ ഭാര്യയുടെ പ്രശംസനീയമല്ലാത്ത ഒരു വശമുണ്ട് അത് കഥയിൽ ക്രമേണ വെളിപ്പെടുന്നു ഈ വിവരണത്തിൽ രൂപപ്പെടുത്തി എടുത്തതായ ഒരു ചെറിയ നിഗൂഢതയുണ്ട് അതുപോലെ മിറിന്റെ വീട്ടിലും നമുക്ക് പ്രശംസിക്കാൻ പറ്റിയ സേവകർ കുറവാണ് ഭാര്യയും വേലക്കാരും പ്രശംസ അർഹിക്കുന്നില്ല അതിനാൽ ഈ നിർദ്ദിഷ്ട വിവരണത്തിൽ ഇവിടെ ഒരു മിറർ ഇമേജ് ഉള്ളതായി കാണുന്നു രണ്ട് സുഹൃത്തുക്കളെയും നിങ്ങൾ ഓർക്കുകയാണെങ്കിൽ അവരും പരസ്പരം ഏതാണ്ട് മിറർ ഇമേജുകളാണ് കൂടാതെ വേലക്കാർ അവരുടെ യജമാനന്മാരുടെ അപര്യാപ്തമായ മനോഭാവത്തെയും പ്രതിഫലിപ്പിക്കുന്നതായി കാണുന്നു അതിനാൽ കഥയിലെ വേലക്കാരുടെ ആ വശം ചർച്ച ചെയ്യുന്ന രസകരമായ ഒരു ഉദ്ധരണി നമ്മുടെ പക്കലുണ്ട് ഇതുവരെ അവർ വെറുതെ ഇരുന്നു ഒരു കാര്യവും ചെയ്യാതെ അതിഥികൾ അവരെ ഒരിക്കലും ശല്യപ്പെടുത്തിയിരുന്നില്ല എന്നാൽ ഇപ്പോൾ അവർക്ക് ദിവസം മുഴുവൻ ഓർഡർ എടുക്കേണ്ടി വന്നു ഇപ്പോൾ പാൻ കൊണ്ടുവരാൻ ഇപ്പോൾ മധുരപലഹാരങ്ങൾ ഒരു കാമുകന്റെ ഹൃദയം പോലെ ഹുക്ക പുകഞ്ഞുകൊണ്ടിരുന്നു മിറിന്റെ വീട്ടിലെ വേലക്കാരുടെ സന്ദർഭം ഇതാണ് ഇതുവരെ അവർക്ക് അത് ഒരു ഒഴിഞ്ഞ വീടായിരുന്നു കാരണം അവരുടെ യജമാനൻ വീട്ടിൽ ഇല്ലായിരുന്നു അതുകൊണ്ട് അവർക്ക് വീട്ടിൽ ഒരു പണിയും ഉണ്ടായിരുന്നില്ല എന്നാൽ ഇപ്പോൾ യജമാനൻ തന്റെ സുഹൃത്തിനൊപ്പം വീട്ടിലായതിനാൽ അവർക്ക് നിരന്തരം ജോലികൾ ചെയ്യണം ദിവസം മുഴുവൻ ഓർഡറുകൾ എടുക്കണം പാൻ കൊണ്ടുവരണം മധുരപലഹാരങ്ങൾ കൊണ്ടുവരണം ഹുക്ക നിരന്തരം ചലിച്ചുക്കൊണ്ടിരിക്കുകയും വേണം ഒരു കാമുകന്റെ ഹൃദയം പോലെ ഹുക്ക പുകയുന്നതായി വിവരിച്ചിരിക്കുന്ന ആ സാമ്യം അവിടെ കാണുന്നത് വളരെ രസകരമാണ് വിശ്രമമില്ലാതെ നിരന്തരം ചലിക്കുന്നു അതിനാൽ ഈ നിർദ്ദിഷ്ട ഉദ്ധരണിയിൽ വ്യക്തമാകുന്നത് തീർത്തും ജോലിയോടുള്ള ഇഷ്ടക്കേടാണ് മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ ഇത് ഉത്തരവാദിത്തത്തിൽ നിന്ന് ഉള്ള ഒഴിഞ്ഞുമാറലാണ് ഇത് ഉത്തരവാദിത്തത്തിന്റെ തിരസ്കരണമാണ് ഉത്തരവാദിത്തത്തിൽ നിന്ന് ഏതാണ്ട് ഒഴിഞ്ഞുമാറലാണ് ചില ആശയങ്ങൾ ആഖ്യാതാവ് ആ നിർദ്ദിഷ്ട ഉദ്ധരണിയിൽ മനോഹരമായി ഒരു ആലങ്കാരിക രീതിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതിനാൽ നിങ്ങൾ വരികൾ സൂക്ഷ്മമായി പരിശോധിച്ചാൽ അവിടെ ഒരു സമാന്തരതയുണ്ട് ഇപ്പോൾ പാൻ കൊണ്ടുവരാൻ മധുരപലഹാരങ്ങൾ അങ്ങനെ രണ്ട് ആശയങ്ങൾ ഒന്നിനുപുറകെ ഒന്നായി അനുയോജ്യമായ രീതിയിൽ കൊണ്ടുവരുന്നു ഞാൻ പറഞ്ഞതുപോലെ അവിടെ ഉത്തരവാദിത്തത്തിന്റെ ഒരു തിരസ്കരണമുണ്ട് അതും നേരിട്ടുള്ള രീതിയിൽ ചെയ്യുന്നു യജമാനന്മാരുടെ ആവശ്യങ്ങൾ നിറവേറ്റുക മാത്രമായിരുന്നു ആ സമയത്ത് സേവകരുടെ ജോലി അതായിരുന്നു അവരുടെ ഉത്തരവാദിത്തം എന്നാൽ അപ്പോൾ ചെയ്യേണ്ടിയിരുന്ന അത്തരം ജോലി അവർ നിരസിക്കുന്നു അവർക്ക് അത് പരസ്യമായ രീതിയിൽ ചെയ്യാൻ കഴിയും എന്നത് വളരെ രസകരമാണ് അതുകൊണ്ട് ഈ ചിത്രമാണ് കഥാകാരൻ നമുക്കായി വരച്ചിടുന്നത് ഈ ഉത്തരവാദിത്ത നിഷേധത്തിൽ വളരെ പ്രാധാന്യമുള്ളത് അത് വലിയ തോതിലുള്ള അഴിമതിയെ സമൂഹത്തിലെ വലിയ തോതിലുള്ള ക്രമക്കേടിനെ സൂചിപ്പിക്കുന്നു എന്നതാണ് അങ്ങനെ 19 ാം നൂറ്റാണ്ടിൽ ലഖ്നൌ നഗരത്തിൽ നടന്ന അഴിമതിയുടെ പ്രതീകമായി സേവകർ മാറുന്നു അതിനാൽ ആ ശ്രേണിയിലെ ഓരോ വിഷയവും ആ സാമൂഹിക ക്രമത്തിൽ 19 ാം നൂറ്റാണ്ടിൽ ലഖ്നൌവിൽ അരങ്ങേറുന്ന ധാർമ്മികവും സാമൂഹികവുമായ അരാജകത്വത്തിൽ ഉൾപ്പെട്ടതായി കാണുന്നു ഒരു ബിസിനസ്സ് ഹൌസിന്റെ ഇമേജ് കൊണ്ടുവരാൻ ഞാൻ ആഗ്രഹിക്കുന്നു പ്രത്യേകിച്ച് ഒരു മധുരപലഹാരക്കടയുടെ മധുരപലഹാരക്കടയിൽ ഉപഭോക്താക്കൾ ഇല്ലെങ്കിൽ കടയിലെ സഹായികൾ ഒന്നും ചെയ്യാതെ വെറുതെ ഇരിക്കുകയായിരിക്കും ആ ദൃഷ്ടാന്തം മിറിന്റെ വീടിന്റെ സന്ദർഭത്തിൽ ഉപയോഗിച്ചിരിക്കുന്നതായി കാണുന്നു മിറിന്റെ അഭാവത്തിൽ ഒരു മധുരപലഹാരക്കടയിലെ ഷോപ്പ് അസിസ്റ്റന്റുമാർ ഉപഭോക്താക്കളില്ലാത്തപ്പോൾ ചെയ്യുന്ന അതേ കാര്യം തന്നെ വീട്ടിലെ ജോലിക്കാരും ചെയ്യുന്നതായി കാണുന്നു അതിനാൽ വീട്ടിൽ യജമാനനില്ലാത്തപ്പോൾ വീട്ടിൽ ബിസിനസ്സ് ഇല്ല ആ സമാന്തരം അവിടെ വരച്ചിരിക്കുന്നതായി കാണുന്നു അതുവഴി കടന്നുപോകുമ്പോൾ കാമുകന്റെ ഹൃദയം പോലെ ഹുക്ക പുകയുന്നു എന്ന് ഞാൻ സൂചിപ്പിച്ച സാമ്യം ഹുക്കയും കാമുകന്റെ ഹൃദയവും തമ്മിലുള്ള രസകരമായ ഒരു സമാന്തരമാണിത് ഈ പ്രത്യേക കഥയിൽ പ്രണയ പ്ലോട്ടുകളോ സന്തോഷകരമായ ഗാർഹിക പ്ലോട്ടോ ഇല്ല കാരണം ഞാൻ പറഞ്ഞതുപോലെ രണ്ട് കേന്ദ്രകഥാപാത്രങ്ങളുടെ ഭാര്യമാരും അവരുടെ ഭർത്താക്കന്മാരോട് ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ അതൃപ്തിയുള്ളവരാണ് അവിടെ ഗൃഹാതുരത്വത്തിന് ഒരു തടസ്സമുണ്ട് രണ്ട് വീടുകളിലും മിർസയുടെ വീട്ടിലും മിറിന്റെ വീട്ടിലും ഗൃഹാതുരത്വത്തിന് വ്യക്തമായ തടസ്സമുണ്ട് കൂടാതെ അവർ വ്യത്യസ്തമായ രീതിയിൽ ആവിഷ്കരിക്കുകയും ചെയ്യുന്നു മിർസയുടെ കാര്യത്തിൽ ഭർത്താവിന്റെ ശ്രദ്ധയ്ക്കായി ഭാര്യ കൊതിക്കുന്നു മിറിന്റെ കാര്യത്തിൽ വീട്ടിൽ നിന്ന് എപ്പോഴും അകലെയായിരിക്കുന്ന ഭർത്താവിന് മറ്റൊരു എതിരാളിയുണ്ട് അതിനാൽ മിറിനോടും മിർസയോടും ബന്ധപ്പെട്ട് ഒരു കാമുകന്റെ ഹൃദയവുമായി ഒരു ഹുക്കയെ താരതമ്യം ചെയ്യുന്നത് അൽപ്പം വിരോധാഭാസമാണ് കാരണം അവരാരും തങ്ങളുടെ ഭാര്യമാരുമായുള്ള ബന്ധത്തിൽ കാമുകനുമായി ഒരു സാമ്യവുമുള്ളവരല്ല ഇപ്രകാരമാണ് ലഖ്നൌവിലെ സമൂഹത്തിൽ ചെസ്സ് കളിയെ കാണുന്നത് ഈ കളി പൈശാചികമാണ് അതാണ് മിറിന്റെ വീട്ടിലെ വേലക്കാർ ബീഗത്തോട് പറയുന്നത് "എന്നാൽ ഈ കളി പൈശാചികമാണ് അത് കളിക്കുന്ന വ്യക്തി ഒരിക്കലും അഭിവൃദ്ധി പ്രാപിക്കുകയില്ല " ഇവിടെ ഒരു നല്ല പ്രാസമുണ്ട് ഇംഗ്ലീഷിൽ പി യും പി യും അത് വീണ്ടും കളിക്കുന്നയാൾ പേഴ്സൺ ഒരിക്കലും അഭിവൃദ്ധി പ്രോസ്പെർ പ്രാപിക്കുകയില്ല അത്തരമൊരു വീടിന്മേൽ ദൌർഭാഗ്യം വരും എത്ര അധികം ആണെന്ന് വെച്ചാൽ അയൽപക്കങ്ങൾ മുഴുവനും ഒന്നിനുപുറകെ ഒന്നായി നശിപ്പിക്കപ്പെടുന്നത് നാം കണ്ടു അയൽപക്കത്തുള്ളവരെല്ലാം അതിനെ പറ്റി സംസാരിക്കുന്നു ഞങ്ങൾ അവന്റെ വിശ്വസ്ത ദാസന്മാരാണ് അവനെ അപകീർത്തിപ്പെടുത്തുന്നത് കേൾക്കാൻ ഇഷ്ടപ്പെടുന്നില്ല " 'മലൈൻഡ്' എന്നാൽ കഠിനമായും ദുരുദ്ദേശപരമായും വിമർശിക്കുക എന്നാണ് ഇതാണ് മിറിന്റെ വീട്ടിലെ സേവകരുടെ വാക്ചാതുര്യം അതിനാൽ അവർ അയാളുടെ ഭാര്യ മിറിന്റെ ഭാര്യ ബീഗത്തോട് ഈ പരാതി പറഞ്ഞു അവർ പറയുന്നു അതായത് അയൽപക്കത്തുള്ള എല്ലാവരും അതിനെക്കുറിച്ച് സംസാരിക്കുകയും പരാതിപ്പെടുകയും ചെയ്യുന്നു ഗെയിം ഒരു ദുഷിച്ച ഗെയിമാണ് ഈ ചെസ്സ് ഗെയിം കളിക്കുന്നയാൾ ഒരിക്കലും അഭിവൃദ്ധി പ്രാപിക്കില്ല വാസ്തവത്തിൽ അവരുടെ ഭാഗ്യത്തിന് ഗുരുതരമായ വീഴ്ച ഉണ്ടാകും വാസ്തവത്തിൽ ഇത് കളിക്കുന്ന ആളുകൾ ഇത് കളിക്കുന്ന ആളുകളുടെ കൂട്ടത്തിന് എല്ലായ്പ്പോഴും ഒരു മോശമായ അവസാനം നേരിടേണ്ടിവരും ഇപ്പോൾ വീട്ടിലെ സ്ത്രീയോട് പറഞ്ഞ വേലക്കാരുടെ വാക്കുകളിൽ ഒരുപാട് അനിഷ്ടസൂചനകൾ ഉണ്ട് വീട്ടുജോലിക്കാർ വീട്ടിലെ യജമാനത്തിയുമായി ആശയവിനിമയം നടത്തുന്ന ആശയങ്ങളുടെ കൂട്ടത്തിൽ മിറിന്റെ വീടിന്റെ തകർച്ചയെ കുറിച്ച് ഒരു ഭീഷണിയുണ്ട് അത് വളരെ വ്യക്തമാണ് പ്രത്യേകിച്ച് പൈശാചികം എന്ന പദങ്ങളുടെ തിരഞ്ഞെടുപ്പും ഒരിക്കലും അഭിവൃദ്ധിപ്പെടില്ല എന്ന ആശയവും ആളുകൾ ഒരിക്കലും അഭിവൃദ്ധി പ്രാപിക്കില്ല ഒരിക്കലും സമ്പന്നരാകില്ല നിർഭാഗ്യം നിർഭാഗ്യം എന്ന വാക്ക് ദൌർഭാഗ്യം അല്ലെങ്കിൽ ദുർവിധി അതെല്ലാം അങ്ങനെയുള്ള ഒരു വീടിന്മേലാണ് അത് വരാൻ പോകുന്നത് അയൽപക്കങ്ങൾ മുഴുവനും നശിപ്പിച്ചു എന്ന വാക്ക് ഞാൻ ഉദ്ദേശിച്ചത് ഈ ഗെയിം ഭ്രാന്തമായി കളിക്കുന്ന അയൽപക്കങ്ങളിലെ ആളുകൾ ഒന്നിനുപുറകെ ഒന്നായി നശിപ്പിക്കപ്പെടും സമൂഹം മുഴുവനും തകരുകയോ നശിപ്പിക്കപ്പെടുകയോ ചെയ്യുക എന്ന ആശയം ഈ വാക്കുകളുടെ തിരഞ്ഞെടുപ്പ് ഈ ഡിക്ഷൻ മുൻകൂട്ടിപ്പറയുന്നതിനും മുന്നറിയിപ്പ് നൽകുന്നതിനും പ്രവചിക്കുന്നതിനുമുള്ള ഒരു പ്രത്യേക മാനസികാവസ്ഥ സൃഷ്ടിക്കുന്നു ഇത് മിറിന്റെ പതനത്തിന്റെ മിറിനൊപ്പം അവന്റെ സുഹൃത്തും അതുപോലെ മുഴുവൻ സമൂഹവും നവാബിന്റെ പതനം ഉൾപ്പെടെ ഏതാണ്ട് ഒരു മുന്നോടിയാണ് അതിനാൽ വേലക്കാർ യജമാനത്തിയോട് വീട്ടിലെ സ്ത്രീയോട് ആശയവിനിമയം നടത്തുന്ന പ്രവചനം എന്ന അർത്ഥത്തിൽ എല്ലാം ഉൾപ്പെട്ടിരിക്കുന്നു അത് വളരെ പ്രധാനപ്പെട്ട ഒരു കൂട്ടം ആശയങ്ങളാണ് ഞങ്ങൾ അവന്റെ വിശ്വസ്ത ദാസന്മാരാണെന്നും അവനെ അപകീർത്തിപ്പെടുത്തുന്നത് കേൾക്കാൻ ഇഷ്ടപ്പെടുന്നില്ലെന്നും ദാസന്മാർ പറയുന്നു ഇത് തികച്ചും വിരോധാഭാസമാണ് അവന്റെ വിശ്വസ്ത ദാസന്മാർ കാരണം സേവകർ എന്ന നിലയിൽ തങ്ങൾക്ക് നൽകിയിട്ടുള്ള ഉത്തരവാദിത്തം അവർ നിരസിക്കുന്നത് മുമ്പത്തെ സ്ലൈഡിൽ നമ്മൾ കണ്ടതുപോലെ അത് വിരോധാഭാസമാണ് കുറഞ്ഞ പക്ഷം 19 ാം നൂറ്റാണ്ടിന്റെ പശ്ചാത്തലത്തിൽ സേവകർ ഏതാണ്ട് യജമാനന്മാരുടെ അടിമകളെപ്പോലെയാണ് ആ സാഹചര്യത്തിൽ യജമാനന്മാരുടെ എല്ലാ ആവശ്യങ്ങളും വേലക്കാർ കൊണ്ടുവരേണ്ടതും വഹിക്കുകയും നിറവേറ്റേണ്ടതും ആണ് അവർ ആ സന്ദർഭത്തിൽ വിശ്വസ്തരായ സേവകരല്ല അതിനാൽ അവരുടെ വാക്കുകളിലും കാപട്യത്തിന്റെ ഒരു അംശമുണ്ട് പ്രത്യേകിച്ച് അവസാനത്തെ പ്രസ്താവനയിൽ അവനെ അപകീർത്തിപ്പെടുത്തുന്നത് കേൾക്കുന്നത് ഞങ്ങൾക്ക് ഇഷ്ടമല്ലെന്ന് അവർ പറയുന്നു അതിനാലാണ് ഈ പ്രശ്നം പരിഹരിക്കുന്നതിനും ഞങ്ങളുടെ യജമാനനെ അത്തരം വിമർശനങ്ങളിൽ നിന്നും അത്തരം നിഷേധാത്മക സംസാരങ്ങളിൽ നിന്നും രക്ഷിക്കുന്നതിനും വേണ്ടി താങ്കളുടെ സഹായം തേടാൻ ഞങ്ങൾ താങ്കളുടെ അടുക്കലേക്ക് വന്നത് അതിനാൽ അവിടെ ഒരു മുന്നറിയിപ്പ് ഉണ്ട് വീടിന്റെ തകർച്ചയെക്കുറിച്ച് ഭീഷണികളുണ്ട് യജമാനനോടുള്ള ആത്മാർത്ഥമായ ബഹുമാനത്താൽ അല്ല ആ അഭിപ്രായമെന്ന് തോന്നുമ്പോൾ ധാർമ്മികമായി നീതിപൂർവ്വം പെരുമാറുന്ന സേവകരുടെ ഭാഗത്ത് കാപട്യമുണ്ട് അവരുടെ ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് ഒഴിഞ്ഞുമാറാനും ജോലിയിൽ നിന്ന് ഒഴിഞ്ഞുമാറാനും മറ്റെന്തെങ്കിലും ചെയ്യാനും അവർ ആഗ്രഹിക്കുന്നതിനാൽ അവർക്ക് അത്തരം മനോഭാവമുണ്ട് അതിനാൽ ഈ ഉദ്ധരണിയിൽ നിന്ന് ഉരുത്തിരിഞ്ഞ മറ്റൊരു സാമൂഹിക യഥാർത്ഥ ഭാഗം എന്നത് ചെസ്സ് കളിയിൽ നിന്ന് അവർ നേടുന്ന ഈ ആനന്ദത്താൽ അയൽപക്കങ്ങൾ മുഴുവൻ നശിപ്പിക്കപ്പെടുന്നു എന്ന ആശയം ആണ് മിറിന്റെയും മിർസയുടെയും വീടിനെ ബാധിക്കുന്ന ഒരു ആനന്ദമാണ് ചെസ്സ് അതേസമയം മറ്റ് തരത്തിലുള്ള ആനന്ദങ്ങൾ ലഖ്നൌ സമൂഹത്തിലെ മറ്റ് ആളുകളുടെ വീടുകളെ ദുഷിപ്പിക്കുന്നു അത് കവിതയെഴുതുന്നതാകാം അത് സംഗീതം ശ്രവിക്കുന്നതാകാം അത് പാചകത്തിന്റെ ആസ്വാദനമോ വേശ്യകളോടൊപ്പമുള്ള ആസ്വാദനമോ ആകാം ലഖ്നൌവിലെ ആളുകളുടെ കൈകളിലാണ് ആനന്ദ സ്രോതസ്സുകളുടെ മുഴുവൻ ശ്രേണിയും മുഴുവൻ വീടുകളും അയൽപക്കങ്ങളും ഈ ആനന്ദാന്വേഷണത്തിൽ ഏർപ്പെട്ടിരിക്കുന്നു അത് ആ ഉദ്ധരണിയിലും വ്യക്തമാക്കിയിരിക്കുന്നു ഇതൊരു പകർച്ചവ്യാധി പോലെ മുഴുവൻ സമൂഹത്തിന്റെയും ജീവാത്മാവിനെ വലിച്ചെടുക്കുന്ന ഒരു പകർച്ചവ്യാധിയായി ആനന്ദം മാറിയിരിക്കുന്നു ഒപ്പം സേവകർ അവർ ഗ്രീക്ക് നാടകങ്ങളിലെ ഒരു ഗായകസംഘം പോലെയാണ് അവിടെ അവർ സമൂഹത്തിന്റെ അവസ്ഥ പ്രേക്ഷകരെ അറിയിക്കുന്നു അതിനാൽ ഒരുതരം വ്യക്തിഗത ഐഡന്റിറ്റിയും ജോലിയോടുള്ള അവരുടെ മനോഭാവത്തിന്റെ അടിസ്ഥാനത്തിൽ അവർ ആ കോറസ് പോലുള്ള വേഷം അവതരിപ്പിക്കുന്നു അവർ കോറസിന്റെ വേഷം ചെയ്യുന്നു അതുപോലെ തന്നെ ആഖ്യാതാവ് അവർക്ക് നൽകിയിട്ടുള്ള ചില വ്യക്തിഗത അർത്ഥവുമുണ്ട് ഞാൻ പറഞ്ഞതുപോലെ അവരുടെ വാക്കുകളിൽ തെറ്റായ ആത്മാർത്ഥതയുണ്ട് പ്രത്യേകിച്ച് ബീഗത്തോട് അവർ നടത്തുന്ന അവസാന പ്രസ്താവനകളിൽ അവർ അവളോട് ഈ അഭ്യർത്ഥന നടത്തുന്നു കാരണം അവർ തങ്ങളുടെ യജമാനന്റെ പ്രശസ്തിയെക്കുറിച്ചാണ് ആശങ്കപ്പെടുന്നത് അല്ലാതെ മറ്റ് പരിഗണനകൾ കൊണ്ടല്ല അതിനാൽ അവരുടെ നിബന്ധനകളിൽ പ്രത്യേകിച്ച് അവർ വീടിന്റെ യജമാനത്തിയോട് എങ്ങനെ അവരുടെ കാഴ്ചപ്പാട് അവതരിപ്പിക്കുന്നു എന്നതിൽ വിരോധാഭാസമുണ്ട് മറ്റ് പ്രധാന പങ്ക് വഹിക്കുന്നത് ചെസ്സ് കളിയോടുള്ള സമൂഹങ്ങളുടെ മനോഭാവമാണ് അതിൽ ഗെയിം തിന്മയുടെ പ്രതീകമായി മാറുന്നു അതുപോലെ തന്നെ മുഴുവൻ കുടുംബങ്ങളുടെയും നാശത്തിന്റെ പ്രതീകമായി മാറുന്നു കൂടാതെ മറ്റു ചില വിമർശകരും ചെസ്സ് ആഡംബരത്തിന്റെ പ്രതീകമായി മാറുന്നു എന്ന് അഭിപ്രായപ്പെടുന്നു അത് സമ്പത്തിന്റെയും പദവിയുടെയും പ്രതീകമായി മാറുന്നു അവിടെ സമ്പന്നരും മതിയായ പദവിയും ഉള്ള ആളുകൾക്ക് മാത്രമേ ഈ നിർദ്ദിഷ്ട ഗെയിം കളിക്കാനുള്ള പദവി ആസ്വദിക്കാൻ കഴിയൂ അതിനാൽ ഈ ചെസ്സ് ഗെയിം അതിന്റെ പ്രതീകാത്മക മൂല്യത്തിൽ ബഹുമുഖമാണ് അത് സമൂഹത്തിന് പൊതുവെയുണ്ട് അതിനാൽ മിറിന്റെ ഭാര്യയുടെ വീക്ഷണവും കൂടാതെ മിർ വീട്ടിൽ കഴിയുമ്പോൾ അവൾ അനുഭവിക്കുന്ന കഷ്ടപ്പാടുകളും നമ്മൾ കണ്ടു അവളെ സംബന്ധിച്ചിടത്തോളം അവൾക്ക് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ കഴിയില്ല കാരണം ഭർത്താവ് വീട്ടിലുണ്ട് അതാണ് അവളുടെ ഒരു വിഷമം വേലക്കാരുടെ ദുരവസ്ഥയിലേക്ക് നിങ്ങൾ നോക്കിയാൽ അവർ ദിവസം മുഴുവൻ ജോലികൾ ചെയ്യണം അവർ പാൻ കൊണ്ടുവരണം അത് അവർക്ക് വിളമ്പണം ദിവസം മുഴുവൻ ചെസ്സ് കളി തുടർച്ചയായി ആസ്വദിക്കുന്ന യജമാനന്മാരുടെ കാര്യങ്ങൾ നോക്കണം അതാണ് അവരുടെ ദുരവസ്ഥ അവർ പരാതി പറയുമ്പോൾ അവർ പറയുന്നു ഞങ്ങൾ സമൂഹത്തിലെ മറ്റുള്ളവരുടെ അഭിപ്രായവും നിങ്ങൾക്ക് നൽകുന്നു ഇപ്പോൾ ആഖ്യാതാവ് അയൽപക്കത്തിന്റെ വീക്ഷണവും വാഗ്ദാനം ചെയ്യുന്നു മിറിന്റെ വീട്ടിൽ കളിക്കുന്ന ചെസ്സ് കളിയുമായി ബന്ധപ്പെട്ട് നമുക്കുള്ള അവസാന വീക്ഷണമായിരിക്കും അത് അതിനാൽ ഇവിടെ ഭാര്യമാരുണ്ട് ഇവിടെ വേലക്കാരുണ്ട് അയൽപക്ക ആശയങ്ങളുടെ പരോക്ഷ പ്രാതിനിധ്യം തുടർന്ന് നമ്മുടെ അറിവിലേക്കായി അയൽപക്ക ആശയങ്ങളും ഉണ്ട് അതുകൊണ്ട് ചെസ്സ് കളിയെക്കുറിച്ച് അയൽപക്കത്തെ സമൂഹത്തിന് പറയാനുള്ളത് ഇതാണ് "ഇത് കൊണ്ട് ഒരു പ്രയോജനവും ഉണ്ടാകുകയില്ല നമ്മുടെ പ്രഭുക്കന്മാർ ഈ രീതിയിൽ പെരുമാറുമ്പോൾ ദൈവത്തിന് മാത്രമേ രാജ്യത്തെ രക്ഷിക്കാൻ കഴിയൂ ഈ കളി കാരണം ഈ രാജ്യം നശിക്കും ഇത് ഒരു പൈശാചിക അടയാളമാണ് " ഇപ്രകാരമാണ് അയൽവാസികൾ ചിന്തിക്കുന്നത് രാജാക്കന്മാരെയാണ് കുറ്റപ്പെടുത്തേണ്ടതെന്ന് അയൽവാസികൾ കരുതുന്നു കാരണം അവർ രാജ്യത്തിന്റെ സംരക്ഷകരായിരിക്കേണ്ടവരാണ് അവർ ഭരണകൂടത്തിന്റെ ഉദ്യോഗസ്ഥരാണ് അവർ ഉത്തരവാദിത്തത്തോടെ പെരുമാറിയില്ലെങ്കിൽ ദൈവത്തിനല്ലാതെ മറ്റാർക്കും രാജ്യത്തെ രക്ഷിക്കാൻ കഴിയില്ല കൂടാതെ ചെസ്സ് കളി തിന്മയുടെ അടയാളമാണ് അതിനാൽ ഈ ചെസ്സ് ഗെയിമിൽ തിന്മ ഉൾപ്പെട്ടിരിക്കുന്നു എന്ന ആശയം വീണ്ടും ഉയർത്തിക്കാട്ടുന്നു വീണ്ടും വീണ്ടും ഉയർത്തി കൊണ്ടുവരുന്നു കുറ്റം മുഴുവൻ ഏറ്റുവാങ്ങാൻ പ്രഭുക്കന്മാരെ പ്രത്യേകം തിരഞ്ഞെടുത്തിരിക്കുന്നു കാരണം അവർ സമൂഹത്തിന്റെ ഏറ്റവും ഉയർന്ന തലത്തിലുള്ളവരാണ് ആളുകൾക്ക് അവരുടെ പെരുമാറ്റം രൂപപ്പെടുത്തുന്നതിനും അവരുടെ ജീവിതം നയിക്കുന്നതിനുമുള്ള മാതൃകകളായി അവർ കാണപ്പെടുന്നു അതുകൊണ്ട് രാജാവ് അഴിമതിക്കാരനാണെങ്കിൽ അപ്പോൾ അതനുസരിച്ച് അവർക്ക് താഴെയുള്ളവരും അവരുടെ മാതൃക പിന്തുടരും ഞാൻ പറഞ്ഞതുപോലെ സേവകരും പഴയ സ്കൂളിലെ ആളുകളും ഈ പ്രത്യേക ചെസ്സ് ഗെയിം പൊതുജനങ്ങളുടെ പൊതു ശത്രുവായി കണക്കാക്കുന്നു കൂടാതെ ഗെയിമുമായി ബന്ധപ്പെട്ട് ഈ തിന്മ അയൽവാസികളുടെ അഭിപ്രായത്തിൽ ഒരിക്കൽ കൂടി ശക്തിപ്പെടുത്തുന്നു കാരണം ഇത് ഒരു വളരെ ലളിതവും റിഡക്റ്റീവ് ഫോർമുലയും ആണ് എന്നാൽ ചെസ്സ് കളി കാരണം ചെസ്സ് കളിയോടുള്ള ഈ ആസക്തി കാരണം ചെസ്സ് തന്നെ ഒരു ബൃഹത്തായ പ്രതീകമായി മാറുന്നതിനാൽ രാജ്യം ഭീഷണിയിലാണ് അതിനാൽ ഈ ചെസ്സ് ഗെയിമിന് വളരെയധികം പ്രതീകാത്മക മൂല്യം നൽകുന്ന വളരെ അതിശയോക്തിപരവും വളരെ ലളിതവുമായ ഒരു ഫോർമുല നമ്മുടെ പക്കലുണ്ട് ഈ ചെസ്സ് കളി പൊതുജനങ്ങളുടെ നന്മക്ക് പൊതു ശത്രുവായി ചൂണ്ടിക്കാണിക്കപ്പെടുന്നു ഈ പൊതു ശത്രുവിന്റെ ഫലമായി രാജ്യം നാശത്തിലേക്ക് നയിക്കപ്പെടുന്നു പ്രേംചന്ദ് ഒരു അതിശയോക്തി കലർത്തുകയും വൃത്തിയുള്ളതുമായ ഒരു മാതൃക വരയ്ക്കുകയും ചെയ്യുന്നു അവിടെ ഈ നിർദ്ദിഷ്ട വിവരണത്തിലെ കുറച്ച് ആളുകളുടെ അല്ലെങ്കിൽ കുറച്ച് കഥാപാത്രങ്ങൾക്ക് നേരെ കുറ്റപ്പെടുത്തലിന്റെ വിരൽ ചൂണ്ടാൻ എളുപ്പമാണ് ലഖ്നൌവിലെ ജനങ്ങളെ ആഴ്ത്തുന്ന സമൂഹത്തെ ആഴ്ത്തുന്ന രാജ്യത്തെ ആഴ്ത്തുന്ന ആനന്ദത്തിന്റെ അനന്തരഫലം എന്താണ് ലഖ്നൌവിനു പുറത്തുള്ള ഗ്രാമപ്രദേശങ്ങളിൽ ആളുകൾ കൊള്ളയടിക്കപ്പെടുമ്പോഴും അവരുടെ പരാതികൾ കേൾക്കാനും അവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാനും ആരുമില്ല അതിനാൽ അവിടെ ഒരു ഭരണകൂടം ഇല്ല ജനങ്ങളെ രക്ഷിക്കാൻ കഴിയുന്ന ഒരു രക്ഷാധികാരികളും അവിടെ ഇല്ല അങ്ങനെ നാട്ടിൻപുറങ്ങളും പാപ്പരായി നാട്ടിൻപുറം കൂടുതൽ ദരിദ്രമാവുകയാണ് അതിന്റെ കാരണം ഒരുപക്ഷേ സമ്പത്ത് നാട്ടിൻപുറത്ത് നിന്നും പുറത്തെടുത്ത് നഗരത്തിലേക്ക് കൊണ്ടുപോയതാകാം നഗരം മറ്റിടങ്ങളിൽ നിന്ന് ലഭിക്കുന്ന ആഡംബരങ്ങൾ ആസ്വദിക്കുന്നു ലഖ്നൌവിലെ മുഴുവൻ സമൂഹവും ഇന്ദ്രിയസുഖങ്ങളിലും വേശ്യകളും കോമാളികളും സംഗീതവും കവിതയെഴുതലും ചെസ്സ് കളിയും ഉൾപ്പെടുന്ന സുഖഭോഗങ്ങളിലും മുങ്ങിയിരിക്കുകയാണ് അതിനാൽ രാജ്യത്ത് അരാജകത്വമുണ്ട് നിയമവാഴ്ചയുടെ സംരക്ഷകരായി കരുതപ്പെടുന്ന ആളുകൾ അവരുടെ ഓഫീസുകളിൽ നിന്ന് വിട്ടുനിൽക്കുന്നു അല്ലെങ്കിൽ അവരുടെ അധികാര സ്ഥാനങ്ങളിൽ നിന്ന് അകന്ന് നിൽക്കുന്നു കൂടാതെ അവർ ആനന്ദത്തിനായി മറ്റു കാര്യങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നു അതിനാൽ സംസ്ഥാനത്തെ ഉദ്യോഗസ്ഥരുടെ ആനന്ദാന്വേഷണങ്ങളുടെ ആഘാതവും ലഖ്നൌവിന്റെ പടിവാതിൽക്കൽ എത്താൻ പോകുന്ന നാശത്തെക്കുറിച്ചുള്ള സൂചനകളും ഭംഗിയായി കാണിക്കുന്ന എക്സ്ട്രാക്റ്റാണിത് ഇംഗ്ലീഷ് കമ്പനിക്ക് കൊടുത്ത് തീർക്കാനുള്ള കടം ഓരോ ദിവസവും കൂടുകയും ഭാരമേറിയതുമായിത്തീരുന്നു കാരണം മികച്ച ഭരണത്തിന്റെ അഭാവത്തിൽ നികുതികൾ പൂർണ്ണമായും പിരിച്ചെടുക്കാൻ കഴിഞ്ഞില്ല റസിഡന്റ് നിരന്തരം ഭീഷണിപ്പെടുത്തുന്നുണ്ടായിരുന്നു പക്ഷേ അമിതമായ ആനന്ദങ്ങളിൽ മുഴുകിയ ആളുകൾ അത് ചെവിക്കൊണ്ടില്ല അടിയന്തിര പ്രശ്നത്തെ പറ്റി അവിടെ സൂചിപ്പിച്ചിരിക്കുന്നു അടിയന്തിര പ്രശ്നം എന്നത് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യാ കമ്പനി ജനങ്ങളിൽ നിന്ന് നികുതി കിട്ടാതെ മടുത്തു ഒപ്പം ലഖ്നൌ നഗരം ഈ കമ്പനിക്ക് കൊടുക്കാൻ ഒത്തിരി കടമുണ്ട് കടത്തിന്റെ ആ പ്രശ്നം രാജ്യത്തെ ജനങ്ങൾക്ക് വലിയ ഒരുതരം പ്രശ്നമുണ്ടാക്കാൻ പോകുകയാണ് അതിനാൽ ഈ നിർദ്ദിഷ്ട ഉദ്ധരണിയിൽ ഉപയോഗിച്ചിരിക്കുന്ന രസകരമായ നിരവധി ദൃഷ്ടാന്തങ്ങൾ ഉണ്ട് നമുക്ക് ആദ്യത്തേത് നോക്കാം കടത്തിന്റെ പുതപ്പ് കടം തന്നെ ജനങ്ങളുടെ മേൽ എറിയപ്പെടുന്ന ഒരു പുതപ്പ് പോലെയാണ് അത് ശ്വാസം മുട്ടിക്കുന്നതാണ് ഇംഗ്ലീഷ് കമ്പനിക്ക് നൽകാനുള്ള കടത്തിന്റെ പുതപ്പ് നനഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു അത് ശ്വാസം മുട്ടിക്കുന്ന ഒരു പുതപ്പ് മാത്രമല്ല അത് ലഖ്നൌവിലെയും അവധിലെയും മുഴുവൻ ജനങ്ങളെയും ഉൾക്കൊള്ളുന്നു അതും നനഞ്ഞുകൊണ്ടിരിക്കുന്നു അത് ഭയങ്കര അസ്വാസ്ഥ്യമായിത്തീരുന്നു അതിനാൽ അത് നനവുള്ളതും ഭാരമേറിയതും ആയിത്തീർന്നു ശ്വാസം മുട്ടുന്നു എന്ന ദൃഷ്ടാന്തമാണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത് കൂടാതെ ലഖ്നൌ രാജ്യത്തെ റസിഡന്റ് ഭീഷണിപ്പെടുത്തുന്നു റസിഡന്റ് എന്നത് ബ്രിട്ടീഷ് റെസിഡന്റ് ജനറലാണ് അദ്ദേഹം ലഖ്നൌവിൽ നിന്ന് തന്റെ നികുതി വേണമെന്ന് ആഗ്രഹിക്കുന്നു എന്നാൽ അത് അദ്ദേഹത്തിന്റെ നിധി ശേഖരത്തിൽ എത്താത്തത് സംസ്ഥാനത്തിലെ ഉദ്യോഗസ്ഥർ കാരണമാവാം പ്രഭുക്കന്മാർ നികുതി പിരിക്കുക എന്ന അവരുടെ ജോലി ചെയ്യുന്നില്ല പകരം അവർ ചെയ്യുന്നത് അമിതമായ സുഖഭോഗങ്ങളിൽ മുഴുകിയിരിക്കുകയാണ് യജമാനന്മാർ വീട്ടിൽ കാണരുത് എന്ന് ആഗ്രഹിക്കുന്ന വേലക്കാരെ കുറിച്ച് ഞാൻ ഓർക്കുന്നു കാരണം അവർ യജമാനന്മാർക്ക് വേണ്ടി ഒരു ജോലിയും ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല അതിനാൽ ഒരു പ്രഭുവിന്റെ ഭവനത്തിലെ സേവകരും അതുപോലെ ബ്രിട്ടീഷ് റെസിഡന്റ് ജനറലിനോട് ഉത്തരവാദിത്തമുള്ള രാജ്യത്തിലെ പ്രഭുക്കന്മാരും തമ്മിൽ നമുക്ക് സമാന്തരം ഉണ്ട് അതിനാൽ ഈ നിർദ്ദിഷ്ട വിവരണത്തിൽ ഉള്ള ചില സമാന്തരങ്ങൾ രസകരമായ പ്രതീകാത്മക സമാന്തരങ്ങൾ നമുക്ക് കാണാൻ കഴിയും

അതിനാൽ രാജ്യം ഈ കമ്പനിക്ക് വൻ കടക്കെണിയിലായി കൊണ്ടിരിക്കുന്നു രാജ്യം കടക്കെണിയിലാകുമ്പോൾ എന്താണ് സംഭവിക്കുന്നതെന്ന് നമുക്കറിയാം കാരണം കമ്പനിക്ക് നിയമവാഴ്ച ഏറ്റെടുക്കാനും പ്രാദേശിക ഭരണാധികാരികളിൽ നിന്ന് ഭരണം ഏറ്റെടുക്കാനും കഴിയുമെന്ന് നമ്മൾ ചരിത്രത്തിൽ കണ്ടു സുഖഭോഗങ്ങളാണ് സമൂഹത്തിലെ അഴിമതിയുടെ ഉറവിടം എന്നതിന് വ്യക്തമായ സൂചനയുണ്ട് അവിടെ അതിനാൽ സമൂഹത്തിൽ വളരെയധികം അഴിമതിയുണ്ട് അതാണ് അവധിലെ അല്ലെങ്കിൽ അവധ് പ്രദേശത്തെ പ്രശ്നത്തിന്റെ ഉറവിടം അതുകൊണ്ടാണ് അത് ഒടുവിൽ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യാ കമ്പനിയോട് കൂട്ടിച്ചേർക്കുന്നത് അതിനാൽ ആനന്ദത്തിന്റെ ആഘാതവും ശ്രദ്ധിക്കേണ്ടതാണ് ആനന്ദാന്വേഷണങ്ങളുടെ അടിയന്തിര ആഘാതം എന്ന് പറയുന്നത് പ്രവർത്തിക്കാനുള്ള കഴിവില്ലായ്മയാണ് പ്രവർത്തിക്കാനുള്ള എല്ലാ കഴിവുകളും ഇല്ലാതായി ആളുകൾ കേൾക്കുന്നില്ല എന്ന് ആഖ്യാതാവ് പറയുന്ന ഈ ഉദ്ധരണിയിൽ അത് വ്യക്തമാണ് അത് ഏതാണ്ട് അവരുടെ ചെവിയുടെ കേൾവി നിന്നതുപോലെയാണ് അവരുടെ ശരീരം ഉറച്ചത് പോലെ അവർ മനുഷ്യരായി പ്രവർത്തിക്കുന്നത് നിർത്തിയതുപോലെ ആണ് കാരണം അവർ നിശ്ചലരായി അവർ മറ്റു ചില കാര്യങ്ങൾക്ക് അടിമപ്പെട്ടിരിക്കുന്നു അതിനാൽ അവധ് രാജ്യത്തെ ജനങ്ങളുടെ അവസ്ഥയെക്കുറിച്ച് നമുക്ക് കൂടുതൽ വ്യക്തത വരുത്താം നമുക്ക് ഒരു വശത്ത് നാട്ടിൻപുറത്തുകാരുണ്ട് ഒപ്പം നഗരവാസികളും ലഖ്നൌവിലെ നഗരവാസികൾ കൂടാതെ പ്രഭുക്കന്മാരും നമുക്കുണ്ട് അവർ സമൂഹത്തിൽ ഉന്നതസ്ഥാനം അലങ്കരിക്കുന്നു പ്രഭുക്കന്മാർക്കും മുകളിൽ രാജ്യം ഭരിക്കുന്ന നവാബും നമുക്കുണ്ട് അതിനാൽ രാജ്യത്തെ ജനങ്ങൾ നിസ്സഹായരാണ് കാരണം രാജ്യം പാവപ്പെട്ടതായി മാറി എന്ന് നമുക്ക് കാണാൻ കഴിയും രാജ്യത്തിന് പുറത്തേക്ക് സമ്പത്ത് ഊറ്റികൊണ്ട് പോയി രാജ്യത്തെ ജനങ്ങളെ കുറ്റവാളികൾ കൊള്ളയടിക്കുന്നു ആരും അവരെ സഹായിക്കുന്നില്ല അതിനാൽ അവർ നിസ്സഹായരും ദുർബലരുമായ അവസ്ഥയിലാണ് അവർ നിസ്സഹായാവസ്ഥയിലാണ് ലഖ്നൌവിലെ നഗരവാസികളുടെ കാര്യമോ നഗരവാസികൾ വളരെ സുഖകരമായ അവസ്ഥയിലാണ് അവർ ശാന്തരാണ് അവർ ജീവിതത്തിന്റെ സന്തോഷം ആസ്വദിക്കുന്നു ഞാൻ പറഞ്ഞതുപോലെ അവർ ജീവിതത്തിന്റെ ഉൽപാദനപരമായ വശങ്ങളൊന്നും ശ്രദ്ധിക്കാതെ കവിതയെഴുതിക്കൊണ്ടിരിക്കുന്നു അതിനാൽ ലഖ്നൌവിലെ ജനങ്ങൾ അത് പണക്കാരായാലും ദരിദ്രരായാലും അവരെല്ലാം സമൂഹത്തിന്റെ നടത്തിപ്പിന് നേരിട്ട് സഹായകരമല്ലാത്ത പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നു ഈ നിർദ്ദിഷ്ട കഥയിൽ മിറും മിർസയും പ്രതിനിധീകരിക്കുന്ന പ്രഭുക്കന്മാർ സമൂഹത്തിലെ ഈ പ്രത്യേക വിഭാഗത്തിലെ മുഴുവൻ വിഭാഗത്തെയും പ്രതിനിധീകരിക്കുന്നതായി കാണുന്നു പ്രഭുക്കന്മാർ തീർച്ചയായും സംസ്ഥാനത്തിന്റെ ഉത്തരവാദിത്തമുള്ള ഉദ്യോഗസ്ഥരല്ല അവർ എല്ലാത്തരം ആനന്ദങ്ങളിലും വ്യാപൃതരാണ് ചെസ്സ് അവയിലൊന്നിനെ പ്രതിനിധീകരിക്കുന്നു

അതുകൊണ്ട് നഗരവാസികൾ ഞാൻ പറഞ്ഞതുപോലെ അധഃപതിച്ചവരും സുഖഭോഗവാദികളും പ്രഭുക്കന്മാർ നിഷ്ക്രിയരുമാണ് അവർ ഒട്ടും സജീവമല്ല ഈ നിർദ്ദിഷ്ട രാജ്യത്തിന്റെ ഭരണാധികാരി അവർക്ക് നൽകിയിട്ടുള്ള ഉത്തരവാദിത്തങ്ങളുമായി ബന്ധപ്പെട്ട് അവർ നിഷ്ക്രിയരാണ് അവർ സുഖലോലുപതയുള്ളവരാണ് അവർ സമൂഹത്തിന്റെ ഭൌതിക വശങ്ങളിൽ നിന്ന് ഉരുത്തിരിഞ്ഞുവരുന്ന ആനന്ദത്തിന് അടിമകളാണ് ഈ രണ്ട് വിഭാഗങ്ങളുമായി ബന്ധപ്പെട്ട് രാജ്യത്തെ ജനങ്ങൾ തീർത്തും നിസ്സഹായരാണ് അതിനാൽ 1856 ലെ അവധ് മേഖലയിലെ ജനങ്ങളുടെ അവസ്ഥ ഇതാണ് ഈ പ്രഭാഷണം ശ്രവിച്ചതിന് നന്ദി അടുത്ത സെഷനിൽ ഞാൻ നിങ്ങളെ ബന്ധപ്പെടും